മുമ്പത്തെ മൊഡ്യൂളുകളിൽ സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ചും ജീവിതത്തിലും ബിസിനസ്സിലും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു സോഫ്റ്റ് സ്കിൽസിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ ആശയവിനിമയ കഴിവുകളെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി തുടർന്നുള്ള മൊഡ്യൂളുകളിൽ ആശയവിനിമയ കഴിവുകൾ എങ്ങനെ ഫലപ്രദമാകുമെന്ന് നമ്മൾ ചർച്ചചെയ്യാൻ പോകുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവിതത്തിലും ബിസിനസ്സിലും ആശയവിനിമയ കഴിവുകൾ വളരെ പ്രധാനമാണ് പക്ഷെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ആശയവിനിമയത്തിൽ നമ്മൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും നമ്മൾ നല്ലരീതിയിൽ ആശയവിനിമയം നടത്തി എന്ന ധാരണ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ആശയവിനിമയത്തെക്കുറിച്ച് പ്രശസ്ത നാടകകൃത്തായ ബെർണാഡ് ഷാ പറയുന്നത് 'ആശയവിനിമയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അത് പൂർത്തീകരിച്ചു എന്ന മിഥ്യാധാരണയാണ് എന്നതാണ് പ്രിയ സുഹൃത്തുക്കളേ ആശയവിനിമയ കഴിവുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സെൻറർ അയച്ച സന്ദേശം റിസീവർ ക്ക് ശരിയായി ലഭിച്ചോ ഇല്ലയോ എന്നത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആശയവിനിമയ കഴിവുകൾ എങ്ങനെ ഫലപ്രദവും ഉപയോഗപ്രദവുമാണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയവിനിമയ കഴിവുകൾ പ്രധാനമാണ് ഇത് ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ മനുഷ്യരെ സഹായിക്കുന്നു കൂടാതെ ഫലപ്രദമായ ആശയവിനിമയ കഴിവുകളിലൂടെ ബിസിനസ്സ് ഓർഗനൈസേഷനുകളും ബന്ധം സ്ഥാപിക്കുന്നു ആശയവിനിമയം നടത്തുക എന്നതിനർത്ഥം ഒരു ആശയം ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുക എന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഒരു ലാറ്റിൻ പദമാണ് ഈ വാക്കിന്റെ അർത്ഥം ആശയവിനിമയം നടത്തുക എന്നാണ് ചില വിവരങ്ങൾ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുതകൾ പങ്കിടുക ആശയവിനിമയം നടത്തുമ്പോൾ നമുക്കുണ്ടായ കുറച്ചു അനുഭവഅനുഭവങ്ങളെപ്പറ്റി പറയുന്നു ഉദാഹരണത്തിന് നമുക്ക് വ്യത്യസ്ത വഴികളിലൂടെ ആശയവിനിമയം നടത്താൻ കഴിയും എന്നിരുന്നാലും ആശയവിനിമയം ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുമ്പോൾ മാത്രമേ അത് ഫലപ്രദമായി കണക്കാക്കാൻ സാധുക്കൂ ഓരോ ആശയവിനിമയത്തിന്റെയും ലക്ഷ്യം ചില വിവരങ്ങൾ കൈമാറുക എന്നതാണ് ചിലത് മറ്റുള്ളവരെ മാനസിലാക്കിപ്പിക്കുക എന്നും കൂടിയുണ്ട് ആശയവിനിമയം ഇല്ലാത്ത ഒരു നിമിഷവും ഉണ്ടാവില്ലെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനാൽ ആശയവിനിമയം നടത്തുക എന്നത് ഒരു ആശയം ആഗ്രഹം അല്ലെങ്കിൽ സംതൃപ്തി പ്രകടിപ്പിക്കുക എന്നതാണ് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടായെന്നിരിക്കാം ചിലപ്പോൾ വ്യത്യസ് ത തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാം നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രതീക്ഷകളും ഉണ്ടായെന്നിരിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷവും സങ്കടവും ഉണ്ടായേക്കാം ചിലപ്പോൾ ധൈര്യമായിരിക്കും ചിലപ്പോൾ ഭയം തോന്നിയേക്കാം അല്ലെങ്കിൽ നിരാശപ്പെട്ടെന്നിരിക്കും ശരിക്കും ഇവയെല്ലാം ഒരുതരം അനുഭവങ്ങളാണ് ഈ അനുഭാവങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചെന്നിരിക്കാം എപ്പോഴും വാചകത്തിലൂടെ മാത്രം ചെയ്യണമെന്നില്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതു പോലെ വാക്കാൽ അല്ലാതെയും ഇവ പ്രകടിപ്പിക്കാൻ കഴിയും ഇപ്പോൾ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ പോലും ആശയവിനിമയം നടത്തുന്നു വിശക്കുമ്പോൾ കുട്ടി കരഞ്ഞു അതിന്റെ ആവിശ്യം എന്താണെന്നു പ്രകടിപ്പിക്കുന്നു കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ എന്നാൽ കുട്ടി തുടർച്ചയായി കരയുകയും അമ്മ അറിയാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് ചില സന്ദർഭങ്ങളിൽ വൈവിധ്യ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതുണ്ട് കുട്ടി കാണിക്കുന്ന ചില ചേഷ്ടകളിൽ നിന്നും കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയും മനുഷ്യരെന്ന നിലയിൽ നാം വാക്കുകളിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത് വാക്കുകൾ നമ്മുടെ സൂചകങ്ങളാണ് ചിഹ്നങ്ങളിലൂടെയും നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയും എന്നാൽ നമുക്ക് ഒരുപാട് വാക്കുകളുള്ളതിനാൽ മനുഷ്യ ആശയവിനിമയം ചില സമയങ്ങളിൽ സങ്കീർണ്ണമാവുകയും ചില സമയങ്ങളിൽ കുഴഞ്ഞുമറിയുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ വളരെ മനോഹരമായ ഒരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ വളരെ രസകരമായ ഒരു സിനിമ കാണുകയോ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്കത് പങ്കിടാൻ താൽപ്പര്യമുണ്ട് മാത്രമല്ല ഇത് നിങ്ങളുടെ ചങ്ങാതിമാരിൽ ഒരാളുമായി പങ്കിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇത് പങ്കിടുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുമായി സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയും ചില ശബ്ദങ്ങളിലൂടെയോ ചില വാക്കുകളിലൂടെയോ അദ്ദേഹത്തിന്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ശരിക്കും നിങ്ങൾക്ക് അവന്റെ മുഖഭാവത്തിൽ നിന്നും ഒപ്പിയെടുക്കാം അവസാനം വിജയകരമായി ആശയവിനിമയം നടത്തിയതായി നിങ്ങൾക്കു മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സുഹൃത്തിനെ തിരഞ്ഞെടുത്തത് കാരണം നിങ്ങളുടെ സുഹൃത്തിനും ഒരേ തരത്തിലുള്ള അനുഭവമുണ്ടായിരിക്കാം സമപ്രായക്കാരും ഒരേ അറിവുള്ളവരും ആയിരിക്കാം കാരണം നമ്മുടെ ശ്രോതാവിന്റെ പ്രായം അനുഭവം അഭിരുചികൾ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ വിജയം ഉറപ്പാക്കാൻ സാധിക്കുക അതിനാൽ ഏത് ആശയവിനിമയത്തിനും ഒരു പൊതു റഫറൻസ് ഉണ്ടായിരിക്കണം ഈ പൊതു റഫറൻസാണ് ആശയവിനിമയത്തെ വിജയകരവും ഫലപ്രദവുമാക്കുന്നത് അതിനാൽ ആശയവിനിമയം ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് പറയാൻ കഴിയും ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾക്ക് ചില റോളുകൾ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ അയച്ചയാളോ അല്ലെങ്കിൽ അതിന്റെ ഉറവിടമോ ആയിരിക്കും നിങ്ങൾ അയച്ചയാളാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശയം ഉണ്ടാകും ഒരു അനുഭവമുണ്ടാവും അതിൽ ഒരു താത്പര്യം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് വസ്തുതാപരമായ ചില വിവരങ്ങൾ ഉണ്ടാവാം ഒരു സെൻറർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ആ ആശയം രൂപപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആശയം രൂപപ്പെടുത്തുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആശയത്തെ ഒരു സന്ദേശ രൂപത്തിലാക്കുക എന്നതാണ് അതിനു മുമ്പ് ഈ ആശയം ലഭിക്കേണ്ട വ്യക്തിയുടെയോ ലക്ഷ്യസ്ഥാനത്തിന്റെയോ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആശയം സ്വീകരിക്കുന്നത് സ്വീകർത്താവ് ആയിരിക്കാം എല്ലാ ആശയവിനിമയ പ്രക്രിയയിലും ഒരു അയക്കുന്നവനും സ്വീകർത്താവും ഉണ്ടാവും അയച്ചയാൾ സന്ദേശത്തെ നിരൂപിക്കുകയും തുടർന്ന് അതിനൊരു മാർഗം തീരുമാനിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മാർഗ്ഗങ്ങൾ അനവധിയാണ് എണ്ണമറ്റതും വിവിധ അവസരങ്ങളെയും ആവശ്യങ്ങളെയും ആശ്രയിച്ച് ആ സന്ദേശം കൈമാറുന്നതിന് ഏറ്റവും പ്രസക്തമായ ഒരു മാർഗ്ഗം നിങ്ങൾ തിരഞ്ഞെടുക്കും അതിനാൽ ഒരു മാർഗ്ഗത്തിലൂടെ സന്ദേശം കൈമാറുമ്പോൾ സന്ദേശം റിസീവറിലേക്ക് പോകുന്നു തീർച്ചയായും ചിലപ്പോൾ മാർഗ്ഗതടസ്സങ്ങൾ ഉണ്ടാകാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഷയിലോ പദാവലികളോ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം സ്വീകരിക്കുന്നവന് ലഭിക്കുന്ന സന്ദേശം മാറാം അല്ലെങ്കിൽ ഒരേ അവസ്ഥയിലായിരിക്കില്ല നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ സ്വഭാവം ചില സമയങ്ങളിൽ എളുപ്പമോ ബുദ്ധിമുട്ടുള്ളതോ ആകാം അതിനാൽ സന്ദേശം റിസീവറിന് ലഭിക്കുമ്പോൾ റിസീവർ സന്ദേശം ഡീകോഡ് ചെയ്യുന്നു ഒടുവിൽ മറുവശത്ത് അയച്ചയാൾ കാത്തിരിക്കുന്നു അവൻ യഥാർത്ഥത്തിൽ ഫീഡ് ബാക്കിനായി കാത്തിരിക്കുകയാണ് മാത്രമല്ല ആശയവിനിമയ പ്രക്രിയ പൂർത്തിയായി എന്ന് പറയാൻ ഫീഡ് ബാക്ക് മാത്രമാണുള്ളത് ചില സമയങ്ങളിൽ നിങ്ങൾ പ്രക്രിയ ആരംഭിക്കുകയും പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യണം മിക്കപ്പോഴും നിങ്ങൾ ഒരു സന്ദേശം അയയ്ക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ലഭിച്ചിരിക്കാമെന്ന ധാരണയിലായിരിക്കും പക്ഷേ നിരവധി അവസരങ്ങളിൽ നിങ്ങൾക്ക് പ്രതികരണമൊന്നും ലഭിക്കുന്നില്ല എന്നാൽ ആശയവിനിമയ പ്രക്രിയ പൂർത്തിയായിട്ടില്ലെന്ന് ഇതിനർത്ഥമില്ല ഒരുപക്ഷേ ഈ പ്രക്രിയയിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം അതിനാലാണ് പ്രതികരണം വരാത്തത് എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത് സെൻറർ ഒരു സന്ദേശം അയയ് ക്കുമ്പോൾ അയയ്ക്കുന്നയാൾക്ക് ഒരു ധാരണയുണ്ട് അത് അയച്ചയാളുടെ ഉത്തരവാദിത്തമാണ് എന്ന് സെൻറർ താൻ സന്ദേശം അയക്കേണ്ട മാർഗ്ഗം തിരഞ്ഞെടുക്കുന്നു അയാൾ ഭാഷ തിരഞ്ഞെടുക്കുന്നു സന്ദേശവും തിരഞ്ഞെടുക്കുന്നു സന്ദേശം ക്രെമപ്പെടുത്തുന്നു തുടർന്ന് ചാനലിലൂടെ അത് റിസീവറിന് അയയ്ക്കുന്നു ഇപ്പോൾ റിസീവർ സന്ദേശം എക്സ്ട്രാക്റ്റു ചെയ്യേണ്ടതാണ് ആശയവിനിമയ പ്രക്രിയ വിജയകരം ആകുന്നതിനു സെൻസറും റിസീവർ ഉം തമ്മിലുള്ള സഹകരണമാണ് ഏറ്റവും പ്രധാനം ഈ സഹകരണം പശ്ചാത്തലത്തെയും അനുഭവത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സന്ദേശം രൂപപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ദൌത്യം ആർക്കാണ് സന്ദേശം തയ്യാറാക്കുന്നത് എന്നതാണ് നിങ്ങൾ ഒരു തമിഴ് അറിയാവുന്ന വ്യക്തിക്ക് സന്ദേശം അയയ്ക്കാൻ ശ്രമിക്കുകയും എന്നാൽ ബംഗാളി ഭാഷ തിരഞ്ഞെടുക്കുകയും ആണെങ്കിൽ സ്വാഭാവികമായും ആശയവിനിമയ പ്രക്രിയയിൽ തടസ്സമുണ്ടാകും ചില സമയങ്ങളിൽ പശ്ചാത്തലം അറിയാതെ നിങ്ങൾ അയയ്ക്കുന്ന സന്ദേശം പരാജയപെടാറുണ്ട് അതിനാൽ സന്ദേശം പൂർത്തിയാക്കുന്നതിനും ആശയവിനിമയ പ്രക്രിയ പൂർ ത്തിയാക്കാതിരിക്കുന്നതിനും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഷ വളരെ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യുകയോ സംയോജിപ്പിക്കുകയോ ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഒരു ആശയം പങ്കിടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാകാം എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ധാരണ ആയിരിക്കില്ല റിസീവറിന് നിങ്ങളുടെ സന്ദേശത്തോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയിൽ തന്നെ റിസീവർ ഉം പ്രതികരിക്കണം എന്ന ധാരണ ഉള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗവും സമാന പ്രതികരണം റിസീവറിന്റെ ഭാഗത്തുനിന്നുണ്ടാവാം എന്നാൽനിങ്ങളുടെ അറിവും റിസീവറിന്റെ പശ്ചാത്തല വിവരങ്ങളും അനുസരിച്ച് നിങ്ങൾ സന്ദേശം തിരഞ്ഞെടുത്ത രീതിയിലോ ആശയവിനിമയ പ്രക്രിയയിലോ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനാൽ ഒരാളുടെ ധാരണ മറ്റുള്ളവരുടെ ധാരണയാവേണമെന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും ചില സാഹചര്യങ്ങളിൽ അത്ഭുതങ്ങളും സംഭവിച്ചേക്കാം നിങ്ങൾ ഒരു സന്ദേശം അയക്കുമ്പോൾ അപ്പോഴത്തെ സാഹചര്യവും ഒരു കാരണമായേക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കമ്പോളത്തിലേയ്ക് ഫോൺ വഴി സന്ദേശം അയക്കാൻ ശ്രമിക്കുമ്പോൾ ചില ശബ്ദ തടസ്സം കാരണം റിസീവറിനു ആ സന്ദേശം ശരിക്കും മനസിലാക്കാൻ കഴിയാതെ പോകുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോടോ ഏതെങ്കിലും ബന്ധുവിനോടോ അല്ലെങ്കിൽ മറ്റാരോടോ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളോട് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ സംസാരത്തിനിടയ്ക്കുവെച്ചു ബന്ധം നഷ്ട്ടപെട്ടിണ്ടുണ്ടാകാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ കൈമാറുന്ന വിവരങ്ങൾ ഫലപ്രദമാകില്ല മാത്രമല്ല ഏത് മാധ്യമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നതും പ്രധാനമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ മാധ്യമങ്ങളുടെ പ്രളയത്തിൽ മിക്ക ആളുകളും കരുതുന്നത് ഇമെയിൽ എളുപ്പവും വേഗതയേറിയതും മികച്ച മാധ്യമവുമാണെന്നാണ് തന്നെ പഠിപ്പിച്ച അധ്യാപകരിലൊരാൾക്കു പ്രത്യേകിച്ചും അധ്യാപക ദിനത്തിൽ ഒരു ഇമെയിൽ അയയ്ക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു നിങ്ങളുടെ അധ്യാപകൻ കുറച്ചു ദിവസങ്ങൾക് മുൻപ് ഒരു ഇമെയിൽ ഐഡി നൽകിയതിനാൽ നിങ്ങൾ ഒരു സന്ദേശം അയയ്ക്കുന്നു പക്ഷെ ദിവസങ്ങളായിട്ടും ചിലപ്പോൾ മാസങ്ങളായിട്ടും നിങ്ങൾക് പ്രതികരണമൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ അയക്കാൻ തീരുമാനിക്കുന്നു ഫോൺ ചെയ്തു നോക്കാം നിങ്ങളുടെ അധ്യാപകന് ഇമെയിലിലേക്ക് പ്രവേശനക്ഷമത ഇല്ലാത്തതിനാൽ നിങ്ങൾ നേരത്തെ അയച്ച സന്ദേശം ലഭിച്ചില്ലെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് അതിനാൽ നിങ്ങൾ ഒരു സന്ദേശം അയയ്ക്കുമ്പോൾ മാധ്യമം തീരുമാനിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം ചിലപ്പോൾ നിങ്ങളുടെ സന്ദേശം വാമൊഴിയായി അയയ്ക്കാനും അല്ലെങ്കിൽ സന്ദേശം എഴുതി അയക്കാനായിരിക്കും നിങ്ങൾ തീരുമാനിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ നല്ലവണ്ണം പഠിക്കാത്ത ഒരാൾക്ക് ഒരു സന്ദേശം എഴുതി അയക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ സന്ദേശം വളരെ സങ്കീർണ്ണമായ രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയച്ച സന്ദേശങ്ങൾ ശരിയായി വ്യാഖ്യാനിക്കപ്പെടണമെന്നില്ല ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആശയവിനിമയം നടത്താത്ത ഒരു നിമിഷവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണം അതിനാൽ നമ്മൾ സന്ദേശങ്ങൾ അയയ്ക്കുമ്പോൾ റിസീവറിന്റെ പശ്ചാത്തലവും ചുറ്റുപാടും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് കാരണം ആശയവിനിമയത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നിങ്ങളുടെ ആശയവിനിമയ മാധ്യമം തീരുമാനിക്കുകയും നിങ്ങൾ സന്ദേശം രൂപപ്പെടുത്തുകയും നിങ്ങളുടെ റിസീവറിന്റെ പശ്ചാത്തലം ഉറപ്പാക്കിയിട്ടുണ്ടാവണം അതിനാൽ രൂപപ്പെടുത്തുമ്പോൾ സന്ദേശം വ്യക്തമാണെന്നും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും മനസ്സിലാക്കുക അതിനാൽ സന്ദേശം വ്യക്തമാണെങ്കിൽ സ്വാഭാവികമായും അത് റിസീവർ നന്നായി എക്സ്ട്രാക്റ്റു ചെയ്യും അതിനടുത്തായി റിസീവറിന് വളരെയധികം താൽപ്പര്യമുള്ളതോ റിസീവറിന് പരിചിതമായതോ ആയ ഒരു ചാനൽ തീരുമാനിക്കുക അല്ലാത്തപക്ഷം ആശയവിനിമയം പരാജയപ്പെട്ടേക്കാം ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് മറാത്തിയിൽ നിന്നു തമിഴിലേക്കോ തമിഴിൽ നിന്നു മറാത്തിയിലേക്ക് തിരിച്ചോ ഒരു സന്ദേശം അയയ്ക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റ് കക്ഷികൾക്ക് മനസ്സിലാകില്ല ഒരു സാധാരണ റഫറൻസ് ഫ്രെയിം ഉള്ളപ്പോൾ പോലും ചിലപ്പോൾ ഇത് സംഭവിക്കാറുണ്ട് ഒരു ഹോമോഫിലി ഉള്ളപ്പോൾ പോലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റ് കക്ഷികൾക്ക് മനസ്സിലാകണമെന്നില്ല അതിനാൽ ഭാഷ ഇംഗ്ലീഷാണെങ്കിലും നിങ്ങൾ സന്ദേശം അയയ്ക്കുന്ന വ്യക്തിയും ഇംഗ്ലീഷിൽ വാചാലനായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുത്ത വാക്ക് ബുദ്ധിമുട്ടാകുന്ന വാക്കാണെങ്കിൽ സ്വാഭാവികമായും ആളുകൾ വിലമതിക്കില്ല കാരണം ആരും ഇപ്പോൾ ഒരു നിഘണ്ടുവോ അല്ലെങ്കിൽ ശബ്ദകോശമോ ഉപയോഗിക്കാറില്ല അതിനാൽ വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം രണ്ട് ആളുകൾക്കും തമ്മിൽ മനസ്സിലാകാവുന്ന ഒരു ഭാഷ ഉപയോഗിക്കുന്നതിൽ വ്യക്തതയുണ്ടാവണം രേഖാമൂലമോ വാമൊഴിയായോ നിങ്ങൾ കൈമാറുന്ന സന്ദേശം പൂർണ്ണമായിരിക്കണമെന്നും അറിഞ്ഞിരിക്കുക ഞാൻ പൂർണ്ണമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആളുകൾ വാമൊഴിയായി സംസാരിക്കുമ്പോൾ പകുതി വാചകം മാത്രം ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു രേഖാമൂലമുള്ള ആശയവിനിമയമാകുമ്പോൾ ചിലപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കാരണം വാക്കാലുള്ള ആശയവിനിമയത്തിൽ നിങ്ങൾക്ക് വ്യക്തത തേടാം പക്ഷേ രേഖാമൂലം അത് സാധ്യമല്ല അതിനാൽ നിങ്ങളുടെ സന്ദേശങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സന്ദേശം രൂപപ്പെടുത്തുമ്പോൾ നിങ്ങൾ കൈമാറിയ വസ്തുതയുടെ അനുഭവം പൂർത്തിയായി എന്നു മനസിലാക്കുക ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ദൈർഘ്യമേറിയ വാക്യങ്ങൾ ഉപയോഗിക്കരുത് ആശയവിനിമയത്തിന്റെ മുഖമുദ്രയാണ് സംക്ഷിപ്തതയെന്നു നിങ്ങൾക്കറിയാം സംക്ഷിപ്തമായിരിക്കുക ചെറിയ വാക്യങ്ങൾ ഉപയോഗിക്കുക എന്നാൽ വ്യക്തമായിരിക്കണം ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ ഉദ്ദേശ്യം അതാണ് ഏതൊരു ആശയവിനിമയത്തിലും കൃത്യത ശരിക്കും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെന്നും നിങ്ങളുടെ വാക്യങ്ങളിൽ വ്യാകരണപ്പിഴയുള്ളതും അതിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ടെന്നും മനസിലാകും മാത്രമല്ല മറുവശത്ത് നിന്നുള്ള പ്രതികരണം അത്ര അനുകൂലമായിരിക്കില്ല ഇതിനുപുറമെ നിങ്ങളുടെ ആശയവിനിമയത്തിൽ നിങ്ങൾ മര്യാദകൾ പാലിച്ചിട്ടുണ്ടോ എന്നും നോക്കണം തീർച്ചയായും വ്യത്യസ്ത ആളുകളുമായി വ്യത്യസ്ത തലങ്ങളിൽ ആശയവിനിമയം നടത്തണം ചിലപ്പോൾ ഉയർന്ന സ്ഥാനങ്ങളിൽ ഉള്ളവരുമായി അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്ന ആളുകളുമായിട്ടായിരിക്കും അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ എല്ലായ്പ്പോഴും മര്യാദകൾ പാലിക്കണം നിങ്ങൾക്കറിയാവുന്നതിനാൽ നിങ്ങളുടെ റിസീവറുകൾക്ക് പരിഗണന നൽകുക ചിലപ്പോൾ നിങ്ങൾ വളരെ കർക്കശക്കാരനായിരിക്കാം മാത്രമല്ല ഉദ്ദേശിച്ച ചില വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നു വരാം അത്തരമൊരു സാഹചര്യത്തിൽ മര്യാദയുള്ളവനായിരിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ റിസീവറിനോട് നിങ്ങൾക്ക് ഒരു സഹതാപം ഉണ്ടായിരിക്കണം എന്നാണ് ആശയവിനിമയം ഫലപ്രദമാക്കുന്നതിന് അത് പരമപ്രധാനമാണ് സ്വീകർത്താവിന്റെ പശ്ചാത്തലവും അറിവും കണക്കിലെടുക്കേണ്ടതുണ്ട് ഇവിടെ പരമപ്രധാനമായ ഒരു കാര്യം നമ്മൾ ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ തയ്യാറാകുമ്പോൾ ഒരു എഴുത്തുകാരൻ ഉദ്ധരിക്കുന്ന 7 സി 7Cs കളെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇതിനെ കാന്ഡിഡന്സ് എന്നു പറയും കാന്ഡിഡന്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മിക്കപ്പോഴും ആശയവിനിമയം നടത്തുമ്പോൾ ചില ആളുകൾ ഇത് എന്റെ സത്യസന്ധമായ അഭിപ്രായമാണെന്ന് പറയുന്നത് കേൾക്കാം ഞാൻ വ്യക്തമായി പറയുന്നു നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ സമഗ്രതയും ന്യായബോധവും വളരെ പ്രധാനമാണെന്ന് ഒരൊറ്റ വാക്ക് കൊണ്ടോ ഒരൊറ്റ ഉച്ചാരണം കൊണ്ടോ ചില സമയങ്ങളിൽ പ്രശ്നമുണ്ടാവുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് ഈ പ്രഭാഷണം കേൾക്കുന്ന ആരെങ്കിലും പ്രൊഫഷണലാകാൻ ലക്ഷ്യമിടുന്നതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ ആയിത്തീരുന്നു നിങ്ങൾ ഒരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ മികവ് പുലർത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കാൻ പോകുന്നുവെങ്കിൽ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ സാധാരണ കാഷ്വൽ ആശയവിനിമയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഒരു പൊതു ആവശ്യത്തിനുള്ള ആശയവിനിമയവും സംഘടനാപരമായ ആശയവിനിമയവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് പൊതു ഉദ്ദേശ്യ ആശയവിനിമയം നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവയ്ക്കിടയിലാണ് അവിടെ നിങ്ങൾക്ക് വാക്കുകളിൽ വലിയ നിയന്ത്രണമില്ല നിങ്ങൾ വളരെ സാധാരണരീതിയിൽ ഇടപഴകും അവിടെ ചിലപ്പോൾ വ്യംഗ്യാർത്ഥത്തിൽ പ്രയോഗിക്കാം ഒപ്പം നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞേക്കാവുന്ന വിശദീകരണവും ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾ ഓർഗനൈസേഷനിൽ ആശയവിനിമയം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിരിക്കണം അവിടെ വ്യത്യസ്ത അഭിരുചികൾ വിശ്വാസങ്ങൾ മതങ്ങൾ ഇഷ് ടങ്ങൾ അനിഷ് ടങ്ങൾ എന്നീ വിവിധതരത്തിലുള്ളവരുടെ ഒത്തുചേരുന്ന ഒരു വേദിയായിരിക്കാം വിവിധ സ്ഥാനങ്ങളിലുള്ളവരും ഉണ്ട് നിങ്ങളുടെ ഏതെങ്കിലും വാക്ക് അല്ലെങ്കിൽ ഉച്ചാരണം കാരണം ചിലപ്പോൾ മോശമായ മതിപ്പ് സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയില്ല മാത്രമല്ല ഇത് ചില സമയങ്ങളിൽ ഒരു ശത്രുത ഉണ്ടാവുകയും ചെയ്യും കാരണം നിങ്ങൾ ടീമായി ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നു ഓർഗനൈസേഷന്റെ എല്ലാ ജീവനക്കാരും അവരവരുടെ റോളുകൾ വ്യത്യസ്തമാണെങ്കിലും അവയെല്ലാം ഒരു നിർദ്ദിഷ്ട ഉദ്ദേശ്യത്തിനായി പ്രവർത്തിക്കുന്നു ഉദ്ദേശ്യം വ്യക്തമാകുമ്പോൾ ഉദ്ദേശ്യം നിർദ്ദിഷ് ടമാകുമ്പോൾ നിങ്ങൾ ചില വിശ്വാസത്തിന് വിരുദ്ധമോ അല്ലെങ്കിൽ മതതത്ത്വസംഹിതയ്ക്ക് വിരുദ്ധമോ ആയ എന്തെങ്കിലും സംസാരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ടീമുകളിലെന്നപോലെ തന്നെ ഓർഗനൈസേഷനുകളിലും നിങ്ങൾ എല്ലായ്പ്പോഴും കൂട്ടായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നമ്മൾ പറയുന്നു ഒരു ഓർഗനൈസേഷനിൽ ഏത് തരത്തിലുള്ള ആശയവിനിമയമാണ് നടക്കുന്നതെന്ന് മനസിലാക്കേണ്ടത് പരമപ്രധാനമായ കാര്യമാണ് ഓർഗനൈസേഷനിലെ ആശയവിനിമയം തീർച്ചയായും മനുഷ്യർ തമ്മിലുള്ളതാണ് എന്നാൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിന്നും സംഘടനാതലത്തിലുള്ളത് ആശയവിനിമയം ആന്തരികവും ബാഹ്യവുമായിരിക്കാം ഒരു ആന്തരിക ആശയവിനിമയമാകുമ്പോൾ അത് ഓർഗനൈസേഷനിലും ജീവനക്കാരുമായും ആയിരിക്കും ഉദാഹരണത്തിന് ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിനായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു അതിനായി നിങ്ങൾ ആശയവിനിമയം നടത്തേണ്ടതുണ്ട് എപ്പോൾ നിങ്ങൾ ആശയവിനിമയം നടത്തിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഔപചാരിക ചാനലുകൾ ഉപയോഗിക്കാം ചിലപ്പോൾ അനൌപചാരിക ചാനലുകളായിരിക്കും ഉപയോഗിക്കുക മിക്ക ഓർഗനൈസേഷനുകൾക്കും അവർക്ക് ചില ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അകത്തും പുറത്തും ആശയവിനിമയം നടത്താം ചില സമയങ്ങളിൽ ആളുകൾക്ക് പരസ്പരം പോയി വിശദീകരണങ്ങൾ തേടാനോ അഭിപ്രായങ്ങൾ തേടാനോ കഴിയും എന്നാൽ നിങ്ങൾ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അവിടെ ഔപചാരിക ആശയവിനിമയ സാഹചര്യങ്ങളുണ്ട് അവിടെ നിങ്ങൾ ഒരു പ്രോഗ്രാമിനെക്കുറിച്ചോ കമ്പനി നയങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നു എന്നാൽ ഇവയെല്ലാം ആന്തരിക ആശയവിനിമയമാണ് നിങ്ങൾക്ക് ഒരു ആന്തരിക ആശയവിനിമയം നടത്തുമ്പോൾ നിങ്ങൾക്ക് വിഭജിക്കാൻ കഴിയുമെന്ന് ഓർക്കുക ചില സമയങ്ങളിൽ അത് അതിക്രമിച്ചെന്നിരിക്കും എന്നാൽ ആന്തരികമായി ഒഴുകുന്ന ആശയവിനിമയം മുകളിലായിരിക്കാം ഉദാഹരണത്തിന് ഒരു പുതിയ നയം പ്രഖ്യാപിക്കുകയും ഒരു പുതിയ നടപടി എടുക്കുകയും ചെയ്തു ശമ്പള വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ഒരു ഡിഎ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് അത് ഓർഗനൈസേഷനിൽ ആശയവിനിമയ പ്രവാഹത്തിന്റെ ആന്തരികം മുകളിലേക്കോ താഴേക്കോ സമാന്തരമോ ആയിരിക്കാം അത്തരമൊരു സാഹചര്യത്തിലെ ആശയവിനിമയ പ്രവാഹം വെർട്ടിക്കൽ അല്ലെങ്കിൽ അത് സമാന്തരം ആയിരിക്കാം എന്നാൽ ചിലപ്പോൾ ഇത് ഡിപ്പാർട്മെന്റ് ഉടനീളം ഉണ്ടാകാം ചിലപ്പോൾ ഇത് ഡയഗണൽ ആകാം ഒരേ നിലയിലുള്ള ആളുകൾ ഒരേ പോസ്റ്റിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുകയും ചില പദ്ധതികളും നയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഓർഗനൈസേഷനിൽ അപകടകരമാകുന്ന തരത്തിലുള്ള അനൌപചാരികമായ ആശയവിനിമയമാണ് നടക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഔപചാരികമായ ആശയവിനിമയങ്ങൾ പലപ്പോഴും നിർദ്ദിഷ്ടവും ഉദ്ദേശ ശുദ്ധിയുള്ളതുമായിരിക്കും അതിനാൽ ഗ്രേപ്പ്വൈൻ grapevine അപവാദമോ രഹസ്യമോ പ്രചരിക്കുന്ന മാര്ഗം എന്ന് വിളിക്കപ്പെടുന്ന അനൌപചാരിക ചാനലിലായിരിക്കും ജീവനക്കാരിൽ കൂടുതൽ പേരെ കാണാൻ കഴിയുക ഇപ്പോൾ അത്തരമൊരു ആധികാരികമല്ലാത്ത വാർത്തകൾ ഗ്രേപ്പ്വൈൻ ലൂടെ മിക്കപ്പോഴും ഒരുപാട് വരുന്നുണ്ട് ചിലപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കില്ല കാരണം നിങ്ങൾക്ക് നിരവധി മാനേജർമാരെ അറിയാം പല എക്സിക്യൂട്ടീവുകളും അവർ കൂടുതൽ അധ്വാനം നടത്തുകയും നാഴികകൾ പിന്നിടുകയും ചെയ്യുന്നു അവർക്ക് അവരുടെ നിർദ്ദിഷ്ട പദങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ ഗ്രേപ്പ്വൈൻ ലൂടെ ബുദ്ധിപരമായി ശേഖരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഗ്രേപ്പ്വൈൻ പലപ്പോഴും ഒരു കിംവദന്തിയാകാൻ ഇടയാകാറുണ്ട് മിക്ക അവസരങ്ങളിലും നിങ്ങൾ ഗ്രേപ്പ്വൈൻ ലൂടെ എടുക്കുന്ന വിവരങ്ങൾ മതിയായതായിരിക്കാം ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഗ്രേപ്പ്വൈൻ ലൂടെ മാനേജ്മെന്റിന് കിട്ടുന്നത് ഒരു മുന്നറിയിപ്പായിരിക്കാം എന്നാൽ ഗ്രേപ്പ്വൈൻ എല്ലായ്പ്പോഴും നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാനാവില്ല തുടർന്ന് ബാഹ്യ ആശയവിനിമയം ഉണ്ട് ഇടപാടുകാർ ഉപഭോക്താക്കൾ സർക്കാർ ഏജൻസികൾ തുടർന്ന് പൊതുജനങ്ങൾ എന്നിവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും സംജാതമാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒരു ബാഹ്യ ആശയവിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം സമാരംഭിക്കാൻ പോകുന്നുവെന്ന് കരുതുക നിങ്ങക്ക് ആ ഉൽപ്പന്നം പ്രോത്സാഹിപ്പിക്കണം അവിടെ ബാഹ്യ ആശയവിനിമയത്തിലൂടെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും അതിലൂടെ നിങ്ങളുടെ ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് പുറം ലോകത്തെ അറിയിക്കുകയും ഉപഭോക്താക്കളെ ബോധവാന്മാർ ആക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ വെബ്സൈറ്റ് വഴിയും നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അറിയാം നിങ്ങളുടെ നയങ്ങളെക്കുറിച്ചും ആളുകൾക്ക് അറിയാം നിങ്ങളുടെ ഓർ ഗനൈസേഷൻ എടുക്കാൻ പോകുന്ന പുതിയ മേജറുകളെക്കുറിച്ചും ആളുകൾക്ക് അറിയാം പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ഒരു പോസിറ്റീവ് ഇമേജ് പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം ചില സമയങ്ങളിൽ ജീവനക്കാർ അസംതൃപ്തരായിരിക്കാം അല്ലെങ്കിൽ അവർ അസന്തുഷ്ടരാവാം പക്ഷേ നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ആയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതിനിധികരിക്കുകയും ആ ഓർഗനൈസേഷന്റെ പ്രതിരൂപമാകുകയും ചെയ്യുന്നുവെന്ന് ഓർക്കുക അതിനാൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരമാവധി തലത്തിൽ ശ്രമിക്കണം നിങ്ങളുടെ ക്രിയേറ്റീവ് ഇമേജ് ഒരു പോസിറ്റീവ് ഇമേജ് ആയി മാറ്റണം അതുവഴി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷന്റെ ശരിക്കുമുള്ള പ്രശസ്തി പുറം ലോകത്തിനെ അറിയക്കണം പറഞ്ഞതുപോലെ ഗ്രേപ്പ്വൈൻ ൽ നിന്ന് സ്വയം അകന്നുനിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഭാഗമാകാം പല ഓർഗനൈസേഷനുകളിലും ഇത് ഒരു വിശ്രമ കാലയളവായി കണക്കാക്കപ്പെടുന്നു ചിലപ്പോൾ ഗ്രേപ്പ്വൈൻ വളരെ ശക്തമാകുമ്പോൾ ചില വിഭാഗീയതയുണ്ടാവാം അവിടെ രാഷ്ട്രീയമായ പക ഒരു പരിധി വരെ ഉണ്ടാകാം അതിനാൽ ഗ്രേപ്പ്വൈൻ ലൂടെ ലഭിക്കുന്ന ആശയവിനിമയം വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം കൂടാതെ ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉപയോഗം നിരസിക്കുകയോ അപകീർത്തിപ്പെടുതുകയോ ഓർഗനൈസേഷന് മോശം ഇമേജ് സൃഷ്ടിക്കുകയോ പാടില്ല നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുമ്പോൾ കത്ത് മുഖേന ലഘുലേഖകൾ ഇന്റർനെറ്റ് കമ്പനി വെബ്സൈറ്റ് എന്നിവയിലൂടെ വിവരങ്ങൾ ഒഴുകുന്നതായി നിങ്ങൾ കണ്ടെത്തും നമ്മൾ ആരംഭച്ചതുമുതൽ വസ്തുതനിഷ്ട്ടമായി പറയുന്ന സംഗതിയാണ് ഇന്നത്തെ ലോകത്ത് നിലനിൽക്കാൻ നിങ്ങൾ ഫലപ്രദമായി ആശയവിനിമയം നടത്തണമെന്നു ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്ക് മാത്രമല്ല ഫലപ്രദമായ ആശയവിനിമയം സഹായകരമാകുന്നത് ഫലപ്രദമായ ആശയവിനിമയ വൈദഗ്ദ്ധ്യം നേടിയവർക്കാണ് മിക്കപ്പോഴും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യത്യസ്ത വഴികളുണ്ട് വ്യത്യസ്ത അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് വിവിധ തലങ്ങളിൽ ആശയവിനിമയം നടത്താനുള്ള അവസരം ലഭിക്കുമ്പോൾ ഒപ്പം നിങ്ങൾ ഒരു കൃത്യത പാലിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുകയും നിങ്ങൾ വാക്കുകളുടെ ഒരു മിതവിനിയോഗം നടത്തുകയും നിങ്ങടെ സഹിഷ്ണുത കാത്തുസൂക്ഷിക്കുക നിങ്ങൾ പുറമേ ആശയവിനിമയം നടത്തുമ്പോൾ സമചിത്തത നിലനിർത്തുക പ്രിയ സുഹൃത്തുക്കളെ പോസിറ്റീവ് ഇമേജ് സൃഷ്ടിക്കാൻ ആശയവിനിമയതിനു സാധിക്കും ആശയവിനിമയം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും കഴിയും പക്ഷേ നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ രീതിക്കനുസരിച്ചാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതീകപ്പെടുത്തുന്നതെന്നും ആശയവിനിമയത്തിൻറെ ഏണിയിലൂടെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയെന്നും ഓർക്കുക അതിനാൽ ഈ മൊഡ്യൂളിൽ ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു ആശയവിനിമയം ഫലപ്രദമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജോലികളെ എളുപ്പമാകാൻ സഹായിക്കുമെന്നും ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വിജയത്തിന്റെ പടിയിലൂടെ കയറാനും കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ആശയവിനിമയം ശരിക്കും ഒരു ആവിഷ്കാരമാണ് നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ആയിരിക്കുമ്പോൾനിങ്ങൾ ഒഴുക്കിനോടൊപ്പമാണെന്നും ഒഴുക്കിന് എതിരല്ലെന്നും മനസ്സിലാക്കുക ആശയവിനിമയമാണ് നിങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് ആശയവിനിമയമാണ് നിങ്ങളുടെ അറിവ് വെളിപ്പെടുത്തുന്നത് ആശയവിനിമയമാണ് നിങ്ങളെ എല്ലായ്പ്പോഴും ഓർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നത് വളരെ നന്ദി